ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു രസകരമായ കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യം ഈ സീരിയലൈസബിലിറ്റി ആശയങ്ങൾ എഴുതുന്നതിനെക്കുറിച്ചും വായിക്കുന്നതിനെക്കുറിച്ചും മാത്രമാണ് പക്ഷേ വായിക്കുന്നതോ എഴുതുന്നതോ ആയ മൂല്യങ്ങളെക്കുറിച്ചല്ല സ്ഥിരമായ ഒരു കാരണം ഉണ്ട് അവർ ഒരേ മൂല്യം വായിക്കണം പക്ഷേ അവർ ഫലം ഭാഗം വിശകലനം ചെയ്യുന്നില്ല അത് വിപുലീകരിക്കുന്നതിന് റിസൾട്ട് ഇക്വിവലൻസ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ആശയമുണ്ട് കോൺഫ്ലിക്റ്റ് ഇക്വിവലൻസും വ്യൂ ഇക്വിവലൻസും ഉള്ളതുപോലെ റിസൾട്ട് ഇക്വിവലൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് S S' എന്നിവ പരസ്പരം തുല്യമാണെങ്കിൽ രണ്ട് ഷെഡ്യൂളുകൾ റിസൾട്ട് ഇക്വിവലൻറ്റ് ആണെന്ന് പറയപ്പെടുന്നു അവർ എങ്ങനെയെങ്കിലും ഒരേ ഫലം പുറപ്പെടുവിക്കുകയാണെങ്കിൽ അവ റിസൾട്ട് ഇക്വിവലൻറ്റ് ആണെന്ന് പറയപ്പെടുന്നു അതിനർത്ഥം ആ ഷെഡ്യൂളുകളിലെ എല്ലാ ട്രാൻസാക്ഷനുകളും വിജയകരമാണെങ്കിൽ ഡാറ്റാബേസിന്റെ വീക്ഷണകോണിൽ നിന്ന് അവ ശരിയാണെന്നാണ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉദാഹരണം ഇതാ a യുടെ 1 വായിക്കുക എന്ന് പറയുന്ന ഈ ഷെഡ്യൂൾ എസ് ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഇത് പിന്തുടരുന്നു ഇപ്പോൾ ഫലത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് a യുടെ മൂല്യങ്ങളും പിന്നെ നമ്മൾ എഴുതുന്ന ഏത് കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് അത് b വായിക്കുകയും തുടർന്ന് b b10 ചെയ്യുകയും തുടർന്ന് b ലേക്ക് എഴുതുകയും ചെയ്യുന്നു മറ്റൊന്ന് താഴെ പറയുന്നവയാണ് അത് b എന്ന് വായിക്കുന്നു പിന്നെ അത് b b50 ചെയ്യുന്നു പിന്നെ അത് w1 r2 പിന്നെ a a10 ആണ് ഒടുവിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം ഒരു ഷെഡ്യൂൾ മാത്രമാണ് ഇത് ഒരു ഷെഡ്യൂൾ എസ് ആണ് ഇത് മറ്റൊരു ഷെഡ്യൂൾ T1 T2 ആണ് ഇത് സീരിയൽ ഷെഡ്യൂളാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഇനിപ്പറയുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ അത് ഇത് ഉത്പാദിപ്പിക്കുന്നു a യുടെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം രേഖപ്പെടുത്തും ട്രാൻസാക്ഷൻ ഒന്ന് പിന്നെ ട്രാൻസാക്ഷൻ രണ്ട് ഇപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷനുകളും നോക്കുക അവ കോൺഫ്ലിക്റ്റ് ഇക്വിവലൻറ്റ് അല്ലയോ എന്ന് നമുക്ക് നോക്കാം വ്യക്തമായും അവ കോൺഫ്ലിക്റ്റ് ഇക്വിവലൻറ്റ് അല്ല കാരണം r2 w1 എന്നിവ ശരിയായ ക്രമത്തിൽ സംഭവിക്കണം അവ കോൺഫ്ലിക്റ്റ് ഇക്വിവലൻറ്റല്ല കാരണം ഈ w2 r1 എന്നിവ ഈ ക്രമത്തിലായിരിക്കണം w2 r1 കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു ഇവിടെ അത് മറുവശത്തേക്ക് മാറ്റുന്നു ഇത് കോൺഫ്ലിക്റ്റ് ഇക്വിവലൻറ്റല്ല ഇതും വ്യൂ ഇക്വിവലൻറ്റല്ല കാരണം w1 നിർമ്മിക്കുന്ന മൂല്യം r1 വായിക്കുന്നു അതേസമയം ഈ r1 മറ്റെന്തെങ്കിലും മൂല്യമാണ് വായിക്കുന്നത് ഇവ കോൺഫ്ലിക്റ്റ് ഇക്വിവലൻറ്റോ വ്യൂ ഇക്വിവലൻറ്റോ അല്ല എന്നിരുന്നാലും വളരെ പ്രധാനമായി ഇവ റിസൾട്ട് ഇക്വിവലൻറ്റാണ് ഈ രണ്ട് ഷെഡ്യൂളുകളുടെ അർത്ഥശാസ്ത്രം മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ ഇത് കാണാൻ കഴിയൂ S ഡാറ്റാബേസ് അനുവദിക്കണം കാരണം ഇത് അവസാനം T1 T2 എന്ന സീരിയൽ ഷെഡ്യൂളിന്റെ അതേ ഫലം നൽകുന്നു എന്നാൽ ഡാറ്റാബേസ് എഞ്ചിൻ അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് ചില അർത്ഥപരമായ വിശകലനം നടത്തുന്നില്ലെങ്കിൽ സെമാന്റിക്സ് എന്നത് ട്രാൻസാക്ഷനുകളുടെ അർത്ഥമാണ് അത് വായിച്ചാലും എഴുതിയാലും ആരാണ് വായിക്കുന്നത് എന്നത് മാത്രമല്ല മറ്റ് ഏത് മൂല്യങ്ങളിൽ നിന്നാണ് മറ്റ് ഇടപാടുകൾ വായിക്കുന്നത് അതു കൂടിയാണ് അർത്ഥമാക്കുന്നത് മൂല്യം വിശകലനം ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യം ഒരു മൈനസ് 50 ഉം പിന്നീട് ഒരു പ്ലസ് 10 ഉം ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം ഒരു പ്ലസ് 10 തുടർന്ന് ഒരു മൈനസ് 50 ചെയ്യുന്നതിനു തുല്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം b50 b ഈ കാര്യം കുറച്ചാൽ അപ്പോൾ അത് പ്രശ്നമല്ല അത് സെമാന്റിക് വിശകലനമായി രേഖപ്പെടുത്തുന്നു അത് ഡാറ്റാബേസ് ചെയ്യുന്നില്ല കാരണം ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമെങ്കിലും സൈദ്ധാന്തികമായി റിസൾട്ട് ഇക്വിവലൻസിനു ഒരു ധാരണയുണ്ട് ഉപയോഗത്തിലുള്ള ഡാറ്റാബേസ് അത് ചെയ്യുന്നില്ല ഇത് തുല്യതയുടെ ഒരു സൈദ്ധാന്തിക ധാരണ മാത്രമാണ് ഡാറ്റാബേസുകൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയിലേക്ക് പോകാനും സീരിയലൈസബിലിറ്റി കാണാനും മാത്രമേ ശ്രമിക്കൂ ഇപ്പോൾ ഇവയെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ സീരിയലൈസ് ചെയ്യാനാകുമോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ അൽഗോരിതം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പേപ്പറും പേനയും ഉപയോഗിച്ച് ചെയ്യുന്നു നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് സീരിയലൈസബിലിറ്റി പരിശോധിക്കുക എന്നതാണ് ഇത് ചെയ്യുന്നതിന് ഒരു ഓട്ടോമേറ്റഡ് അൽഗോരിതം ഉണ്ടാകുമോ അതോ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാനാകുമെന്നോ സീരിയലിസബിലിറ്റിക്കായി ടെസ്റ്റിംഗിന് ഇനിപ്പറയുന്ന ആശയം ആവശ്യമാണ് ആദ്യം ഒരു പ്രസിഡൻസ് ഗ്രാഫ് സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ പ്രസിഡൻസ് ഗ്രാഫിന്റെ ആശയം ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചർ പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു ഗ്രാഫിന് ചില നോഡുകളുണ്ട് നോഡുകളെ ബന്ധിപ്പിക്കുന്ന അരികുകളുണ്ട് ഇപ്പോൾ ഈ ഡയറക്ടഡ് ഗ്രാഫ് എന്താണെന്ന് നമുക്ക് കാണാം ഇത് ഒരു ഡയറക്റ്റ് ഗ്രാഫ് ആണ് ഷെഡ്യൂളിലെ ഓരോ ഇടപാടുകളും നിങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഏതു വിധത്തിലും ഒരു നോഡ് അല്ലെങ്കിൽ വെർട്ടെക്സ് ആണ് പിന്നെ ഒരു ട്രാൻസാക്ഷൻ മുതൽ മറ്റൊരു ട്രാൻസാക്ഷൻ വരെയുള്ള ഒരു എഡ്ജ് ഉണ്ട് എഡ്ജുകൾ ഡയറക്ട് ചെയ്യപ്പെടുന്നു കാരണം ഇത് ഒരു ഡയറക്ടഡ് ഗ്രാഫ് ആണ് ഇനിപ്പറയുന്ന മൂന്ന് വ്യവസ്ഥകളിൽ ഏതെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ wi rj ന് മുമ്പാണ് ഇവിടെ നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് പ്രധാന അവസ്ഥ മുമ്പ് വരുന്നു wj അല്ലെങ്കിൽ r എന്നതിന് മുമ്പ് wj എന്നതിന് മുമ്പായി wi സംഭവിക്കുന്നു മൂന്നാമത്തെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാം ഇത് wi ന് മുമ്പുള്ള wj ആണ് ഇത് മൂന്ന് പൊരുത്തക്കേടുകളെ എൻകോഡ് ചെയ്യുന്നു എഴുത്തിന് ശേഷം വായിക്കുക വായിച്ചതിന് ശേഷം എഴുതുക എഴുതിയതിന് ശേഷം എഴുതുക അതിനാൽ Ti Tj ഇടപാടുകൾക്കിടയിൽ റൈറ്റ് റീഡ് റീഡ് റീഡ് റീഡ് റൈറ്റ് റൈറ്റ് റൈറ്റ് എന്നിങ്ങനെ വൈരുദ്ധ്യമുണ്ടാക്കുന്ന രണ്ട് ഇൻസ്ട്രക്ഷനുകൾ ഉണ്ടാകാം Ti യുടെ ട്രാൻസാക്ഷന് മുമ്പ് Tj യുടെ പ്രവർത്തനം സംഭവിക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ Ti ക്ക് ഒരു ഡയറക്ടഡ് എഡ്ജുണ്ട് അങ്ങനെയാണ് നിങ്ങൾ പ്രസിഡൻസ് ഗ്രാഫ് സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ പ്രസിഡൻസ് ഗ്രാഫ് എന്ന് വിളിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കണം ഒന്നാമതായി ഒരു ഷെഡ്യൂൾ നൽകുമ്പോൾ ഒരാൾക്ക് പ്രസിഡൻസ് ഗ്രാഫ് സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ ഈ പ്രസിഡൻസ് ഗ്രാഫ് നൽകുമ്പോൾ ഒരു ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസ്ബിൾ ആകാം ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് ഇത് പ്രധാനമാണ് ഇത് ഇഫ് മാത്രമല്ല ഇത് ആവശ്യമായതും മതിയായതുമായ അവസ്ഥയാണ് പ്രസിഡൻസ് ഗ്രാഫ് അസൈക്ലിക് ആണെങ്കിൽ മാത്രം ഇതിന് ചക്രങ്ങളൊന്നുമില്ല കോൺഫ്ലിക്റ്റ് സീരിയലൈസ്ബിൾ ആണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം സൈക്കിൾ എന്താണ് അർത്ഥമാക്കുന്നത് Ti ക്ക് Tj യോട് ഒരു എഡ്ജുണ്ട് അപ്പോൾ അതിന് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഒരു എഡ്ജുണ്ട് നമുക്ക് Tk എടുക്കാം അതിന് മറ്റെന്തെങ്കിലും ഒരു എഡ്ജ് ഉണ്ട് ഒടുവിൽ Tj ലേക്ക് ഒരു അരികുണ്ട് Ti മുതൽ Tj വരെയുള്ള ഈ എഡ്ജിന്റെ അർത്ഥമെന്താണ് Ti മുതൽ Tj വരെ എന്നാൽ Ti Tj കോൺഫ്ലിക്റ്റും Ti യുടെ ഇൻസ്ട്രക്ഷനും Tj യ്ക്ക് മുമ്പായി സംഭവിക്കണം എന്നാണ് അപ്പോൾ അടുത്ത എഡ്ജ് അർത്ഥമാക്കുന്നത് Tj യുടെ ചില നിർദ്ദേശങ്ങൾ Tk ന് മുമ്പ് സംഭവിക്കണം എന്നാണ് അതുപോലെ Tkയുടെ നിർദ്ദേശങ്ങൾ Ti ക്ക് മുമ്പ് സംഭവിക്കണം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സീരിയൽ ഓർഡറിനെക്കുറിച്ച് ചിന്തിക്കാനാകും നമുക്ക് Ti Tj Tk സങ്കൽപ്പിക്കാം ഇപ്പോൾ ഇത് അവസാന വ്യവസ്ഥ ലംഘിക്കാൻ പോകുന്നു അതായത് Ti ന് മുമ്പ് Tk സംഭവിക്കുന്നില്ല നമുക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം അതിന്റെ Tk Tj Ti എന്ന് കരുതുക അപ്പോൾ Tk മുതൽ Ti വരെ കുഴപ്പമില്ല പക്ഷേ Tk ന് മുമ്പ് Tj സംഭവിക്കണം ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ Ti Tj ന് മുമ്പായിരിക്കണം അത് Tk ന് മുമ്പായിരിക്കണം അത് മറ്റെന്തെങ്കിലും മുമ്പാകണം Ti ക്ക് മുമ്പ് അത് ഒരിക്കലും സംഭവിക്കില്ല അതായത് സീരിയൽ ഷെഡ്യൂൾ സാധ്യമല്ല അതായത് ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അത് സംഘർഷം സീരിയലൈസ് ചെയ്യാനാകില്ല മറുവശവും കാണിക്കാൻ കഴിയും ഒരു ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസ് ചെയ്യാവുന്നതാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഇത് Ti Tj Tk ഓർഡറിന് തുല്യമാണ് ഇത് ചില സീരിയൽ ഷെഡ്യൂളിന് തുല്യമാണ് Ti മുതൽ Tj വരെയും Tj മുതൽ Tk വരെയും മാത്രമേ ആകാവൂ അവയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല അല്ലാത്തപക്ഷം അത് തുല്യമല്ല അതായത് ഒരു സൈക്കിൾ ഉണ്ടാകില്ല ഇവ രണ്ടും ആവശ്യമായതും മതിയായതുമായ അവസ്ഥയാണ് തന്നിരിക്കുന്ന ഷെഡ്യൂളിൽ നമുക്ക് അതിന്റെ പ്രസിഡൻസ് ഗ്രാഫ് നിർമ്മിക്കാൻ കഴിയും ഗ്രാഫിൽ സൈക്കിളുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയൽ ചെയ്യാനാകില്ല അല്ലാത്തപക്ഷം ഒരു പ്രസിഡൻസ് ഗ്രാഫിൽ സൈക്കിളുകൾ അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്താം എന്ന ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുന്നു ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്നൊരു അൽഗോരിതം ഉണ്ട് നിങ്ങൾ ആദ്യം ഒരു ശീർഷത്തിൽ നിന്ന് ആഴത്തിലുള്ള തിരയൽ ആരംഭിക്കുകയാണെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാകും ഒരു സൈക്കിൾ ഇല്ലെന്ന് കരുതുക ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു അൽഗോരിതം പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ഒരു സീരിയൽ ഓർഡർ നൽകും ടോപ്പോളജിക്കൽ സോർട്ടിംഗ് യഥാർത്ഥത്തിൽ ട്രാൻസാക്ഷന്റെ ഒരു സീരിയൽ ഓർഡർ ഉണ്ടാക്കും അതിനർത്ഥം ടോപ്പോളജിക്കൽ ഓർഡർ യഥാർത്ഥത്തിൽ Ti Tj Tk പോലുള്ള ഒന്ന് ഉണ്ടാക്കിയേക്കാം അതായത് ഇത് Ti Tj Tk ന് തുല്യമാണ് ആഴത്തിലുള്ള ആദ്യ തിരയലിന് സൈക്കിളുകളുണ്ടോ ഇല്ലയോ ഗ്രാഫ് അസൈക്ലിക്ക് ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയും ഇവ രണ്ട് അൽഗോരിതങ്ങളാണ് നിങ്ങൾക്ക് ഗ്രാഫ് അൽഗോരിതങ്ങൾ പരിചിതമാണ് അല്ലാത്തപക്ഷം നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയെക്കുറിച്ചാണ് വ്യൂ സീരിയലിസബിലിറ്റി പരിശോധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് N P കംപ്ലീറ്റ് സീരിയലിസബിലിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സങ്കീർണ്ണത ക്ലാസ് പ്രശ്നമുണ്ട് വ്യൂ സീരിയലിസബിലിറ്റി പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു N P കംപ്ലീറ്റ് പ്രശ്നമാണ് N P കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് അവ കഠിനമാണെന്ന് കരുതപ്പെടുന്നു അവ കഠിനമാണോ അല്ലയോ എന്നത് വ്യക്തമല്ല അവർക്കായി ഒരു നല്ല കാര്യക്ഷമമായ അൽഗോരിതം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല അതിനാൽ N P കംപ്ലീറ്റ് പ്രശ്നങ്ങൾ സാധാരണയായി ബുദ്ധിമുട്ടുള്ളതാണ് വ്യൂ സീരിയലിസബിലിറ്റി പരിശോധിക്കുന്നത് ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് ഈ N P കംപ്ലീറ്റ് പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ വളരെക്കാലം എടുത്തേക്കാം ഡാറ്റാബേസ് എഞ്ചിനുകൾ സാധാരണയായി കൃത്യമായ ആശയങ്ങളിൽ സീരിയലിസബിലിറ്റി കാണുന്നതിന് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല അത് വീണ്ടും ഹ്യൂറിസ്റ്റിക്സ് എന്ന ആശയം അവലംബിക്കും ഇത് ചില പ്രായോഗിക ഹ്യൂറിസ്റ്റിക്സ് ആണ് ഇത് എല്ലാ നോൺ വ്യൂ സീരിയൽ ഷെഡ്യൂളുകളും പിടിക്കാൻ ശ്രമിക്കുന്നു ഒരു ഷെഡ്യൂൾ നോൺ വ്യൂ സീരിയൽ ആണെങ്കിൽ അത് പെട്ടെന്ന് പിടിക്കാനാകും ഇതിന് സീരിയൽ ചെയ്യാവുന്ന ഒരു യഥാർത്ഥ വ്യൂ നഷ്ടപ്പെടാം ഇത് നോൺ വ്യൂ സീരിയലൈസ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പിടിക്കുന്നു പക്ഷേ സീരിയൽ ചെയ്യാവുന്ന ഒരു കാഴ്ച നഷ്ടപ്പെടും ഞാൻ പറയാൻ ശ്രമിക്കുന്ന പ്രഭാവം നോൺ വ്യൂ സീരിയൽ ആണെങ്കിൽ ഒരു പ്രായോഗിക അൽഗോരിതം ഉണ്ട് ചില ഹ്യൂറിസ്റ്റിക്സ് യഥാർത്ഥത്തിൽ ഇത് നോൺ വ്യൂ സീരിയലൈസബിൾ ആണെന്ന് പറയും വ്യൂ സീരിയലിസബിൾ ഷെഡ്യൂൾ നോൺ വ്യൂ സീരിയലിസബിൾ ആയി പ്രഖ്യാപിക്കുന്നതും സംഭവിക്കാം അതാണ് അത് ചെയ്യുന്ന തെറ്റ് കാരണം ശരിയായ നടപടിക്രമം N P കംപ്ലീറ്റ് ആണ് അത് പൂർത്തിയാക്കാൻ വളരെ സമയമെടുക്കും ഒരു വശത്ത് മാത്രം തെറ്റ് ചെയ്യുക എന്നതാണ് പ്രായോഗിക രീതി അതിന്റെ അർത്ഥം ഒരു സീരിയലിസബിൾ ഷെഡ്യൂൾ കാണുക എന്നാണ് എന്നാൽ ഒരു ഷെഡ്യൂൾ സീരിയൽ ചെയ്യാനാകാത്തതാണെങ്കിൽ അത് തീർച്ചയായും പിടിക്കും